വികാരങ്ങളെ വിശകലനം ചെയ്യുന്നതിനുള്ള ജൈവശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു വൈജ്ഞാനിക സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് വൈജ്ഞാനികമായ വിലയിരുത്തലുകളെ കുറിച്ചാണ് ഷാക്റ്ററുടെ സിദ്ധാന്തം വിവരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വിലയിരുത്തൽ മെക്കാനിസം നിങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് വൈകാരികമായ സംവേദനം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ശരീരശാസ്ത്രപരവും വൈകാരികവുമായ ഉത്തേജനത്തിൻറെ ഫലമാണ് ശരീരശാസ്ത്രപരമായ ഉത്തേജനം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു വികാരം ഗ്രഹിക്കുന്നതിന് ഉള്ള ശക്തി ലഭിക്കുന്നു അപ്പോൾ ആ വികാരത്തെ അടയാളപ്പെടുത്തുന്നതിനു നിങ്ങൾ ശ്രമിക്കുന്നു അതായത് നിങ്ങൾക്ക് ശരീരശാസ്ത്രപരമായ ഒരു ഉത്തേജനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വികാരത്തിൻറെ അർഥം കണ്ടുപിടിക്കാനും അതിന് അടയാളപ്പെടുത്തുവാനും ശ്രമിക്കുന്നു വികാരത്തെ ഉളവാക്കുന്ന സാഹചര്യങ്ങൾ പരിസ്ഥിതിയിൽ സംഭവിക്കുന്നു എന്ന് ഷാക്റ്റർ സിംഗർ അഭിപ്രായപ്പെടുന്നു ജെയിംസ് ലാംഗ്ന്റെ സിദ്ധാന്തം മുതൽ കാനൻ ബാർഡ് സിദ്ധാന്തം വരെ ഇത് അംഗീകരിക്കുന്നുണ്ട് വികാരത്തെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ എല്ലാം കാണാം ഇത്തരം വാദങ്ങൾ ശരീരശാസ്ത്രപരമായ ഉത്തേജനത്തെയും സംവേദനത്തെയും സാധാരണീകരിക്കുന്നവയാണ് എന്നാൽ ജീവശാസ്ത്രപരമായ വാദങ്ങൾ ഇവയെ പിന്തുണയ്ക്കുന്നില്ല ശാരീരികമായ ഉത്തേജനവും ശരീരത്തിലെ സംവേദനങ്ങളുടെ ഉത്തേജനവും ഇവയെല്ലാം കാരണമാണ് ഞാൻ ഇത്തരമൊരു അവസ്ഥയിൽ എത്തിച്ചേരുന്നത് എൻറെ വികാരങ്ങൾക്കും അനുഭവങ്ങൾക്കും പിന്നിലുള്ള കാരണവും അത് തന്നെയാണ് എന്ന് ചിന്തിക്കുന്നതും So അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംവേദനങ്ങളോട് നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് അതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം വ്യതിയാനങ്ങൾക്ക് കാരണങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുന്നു ഈ ഉത്തേജക അവസ്ഥയാണ് ഏതുതരത്തിലുള്ള വികാരമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് എന്ന് നിർണയിക്കാൻ സഹായകമാകുന്നത് ഇതിനെയാണ് വൈജ്ഞാനിക വിലയിരുത്തൽ സിദ്ധാന്തംഎന്ന് വിളിക്കുന്നത് അല്പം വിശദീകരിച്ചാൽ ശരീരശാസ്ത്രപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും ശരീരത്തിന് ഉത്തേജനത്തിനും നിങ്ങൾ കണ്ടെത്തുന്ന കാരണങ്ങൾ ഉത്തേജനാവസ്ഥക്കു നിങ്ങൾ കണ്ടെത്തുന്ന കാരണം ആ കാരണം എന്ത് വികാരമാണ് അനുഭവിക്കുന്നത് എന്ന് നിർണ്ണയിക്കുന്നു അതിനാൽ ഇതിനെ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഒരു അറ്റൻഡർ രോഗിയോടൊപ്പം ഒരു ഡന്റൽ ക്ലിനിക് ലേക്ക് കടന്നു വരുന്നു എന്ന് കരുതുക He has normal breathing and heartbeat രോഗിയുടെ ശ്വാസഗതിയും ഹൃദയമിടിപ്പും സാധാരണ നിലയിലാണ് അറ്റൻഡർക്ക് രോഗിയുടെ ഭയം ബുദ്ധിപരമായി തിരിച്ചറിയാൻ കഴിയും പക്ഷേ ഭയമോ വേദനയോ അനുഭവിക്കാൻ കഴിയില്ല ഉത്തേജക നിലയുടെ അളവ് കുറവായതിനാലാണിത് വൈകാരിക നിലയിലുള്ള ഉത്തേജനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഒരു വികാരത്തെ അതേപടി ഉൾക്കൊള്ളാൻ കഴിയില്ല ഉദാഹരണത്തിന് ശരീരശാസ്ത്രപരമായി ഉത്തേജിതനായ ഒരു കളിക്കാരൻ അയാളുടെ കളി തുടങ്ങുന്ന അവസ്ഥയിൽ അത്തരത്തിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല അതിന് കാരണം വൈകാരികം അല്ലാത്ത ചില ഘടകങ്ങൾ ആയിരിക്കാം ഇവിടെ നമ്മൾ കണ്ട രണ്ടുദാഹരണങ്ങൾ ഒന്ന് ഒരു ഡെന്റൽ ക്ലിനിക്കിലെ രോഗിയും രണ്ടാമത്തേത് മൈതാനത്ത് നിൽക്കുന്ന ഒരു കളിക്കാരനും ഏതാണ് ഈ രണ്ടു സാഹചര്യങ്ങളെയും ഷാക്റ്ററുടെ സിദ്ധാന്തം വിശദീകരിക്കുന്നുണ്ട് ശരീരശാസ്ത്രപരമായ ഉത്തേജനം പലപ്പോഴും വൈജ്ഞാനികമായ അടയാളപ്പെടുത്തലിനെ പ്രചോദിപ്പിക്കുന്നു ഇതാണ് ഒരു വ്യക്തിയുടെ വൈകാരിക അനുഭവങ്ങളിലേക്ക് അവനെ എത്തിക്കുന്നത് ഫിസിയോളജിക്കൽ ആയി ഉണ്ടാകുന്ന ഉത്തേജനങ്ങൾക്കു നിങ്ങൾ കാരണം കണ്ടു പിടിക്കാൻ ശ്രമിക്കുന്നു ആ കാരണം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ വൈജ്ഞാനികമായി അടയാളപ്പെടുത്തുകയും അർത്ഥം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു മറ്റ് സിദ്ധാന്തങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സിദ്ധാന്തം വൈകാരിക പ്രക്രിയയിലെ വൈജ്ഞാനിക ഘടകങ്ങളെ വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ടെന്ന് കാണാം അതിനാൽ ഈ സിദ്ധാന്തം അടിസ്ഥാനപരമായി വ്യത്യസ്ത വികാരങ്ങളെ ഒരേ ഉത്തേജനത്തിന്റെ വൈവിധ്യമാർന്ന അറിവായി കണക്കാക്കുന്നു അതിനാൽ ഹൃദയമിടിപ്പിൽ ഒരു മാറ്റമുണ്ട് പൾസ് നിരക്കിൽ ഒരു മാറ്റമുണ്ട് ഗാൽവാനിക് ത്വക്ക് പ്രതികരണത്തിൽഒരു മാറ്റമുണ്ട്ശരിയാണ് ഈ സിദ്ധാന്തമനുസരിച്ച് മേൽ ക്രമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ഒന്നും അത്ര പ്രധാനമായി പരിഗണിക്കുന്നില്ല ഹൃദയമിടിപ്പിന്റെയും രക്തസമ്മർദ്ദത്തിന്റെയും ക്രമം മാറുന്നു എന്നതിനപ്പുറം നിങ്ങൾക്കുണ്ടാകുന്ന ഉത്തേജനത്തിന് അതിന് കാരണം കണ്ടെത്തുകയും അതാണ് നിങ്ങളുടെ വികാരത്തിൻറെ ഉറവിടം എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇത് മറ്റ് സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ് കാരണം അടിസ്ഥാനപരമായി വ്യത്യസ്ത വികാരങ്ങൾ ഒരേ ഉത്തേജനതലത്തിന്റെ വൈവിധ്യമാർന്ന അറിവാണെന്ന് ഈ സിദ്ധാന്തം കരുതുന്നു മറ്റ് സിദ്ധാന്തങ്ങൾ വ്യത്യസ്ത വികാരങ്ങൾക്ക് അടിസ്ഥാനമായി വ്യത്യസ്ത ഫിസിയോളജിക്കൽ ഘടകങ്ങളെ പരിഗണിച്ചിട്ടുണ്ട് ജൈവശാസ്ത്ര സിദ്ധാന്തങ്ങളും ഷാക്റ്റർ സിംഗർ വികാര സിദ്ധാന്തവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ആയി കരുതാം വൈകാരിക പ്രതികരണങ്ങൾ അടിസ്ഥാനപരമായി ആന്തരികവും സാന്ദര്ഭികവുമായ വിലയിരുത്തൽ പ്രക്രിയകളുടെ ഫലമാണെന്ന് ലാസറസ് വിശദീകരിക്കുന്നു പ്രതികരിക്കാനും പ്രവർത്തിക്കാനുമുള്ള വ്യക്തിയുടെ ജൈവശാസ്ത്രപരമായ പ്രേരണ വികാരങ്ങൾക്കു പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിപരമായ സ്വാധീനംഭൌതികമായ പ്രതികരണം ഇത്തരത്തിൽ മൂന്ന് പ്രതികരണ ഫലങ്ങളെ കുറിച്ചും ലാസറസ് വിശദീകരിക്കുന്നു വികാരപ്രകടനകളും അതേസമയം അവയുടെ പ്രവർത്തനങ്ങളും ചെറുത്ത്നിൽക്കുന്നതിനുള്ള സ്വാധീനങ്ങളും മനശാസ്ത്രവിശദീകരണങ്ങളുടെ ഭാഗമായി വരുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അഭിമുഖീകരിക്കുന്ന രണ്ടുതരം തന്ത്രങ്ങളെക്കുറിച്ച് ലാസറസ് വിശദീകരിക്കുന്നു വികാരപ്രകടനങ്ങൾക്ക് അടിസ്ഥാനമായ ജീവശാസ്ത്രപരമായി വൈജ്ഞാനികവും ആയ സിദ്ധാന്തങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു എത്ര വിധത്തിലുള്ള വികാരങ്ങൾ ഉണ്ട് എന്ന് ഇനി നമുക്ക് നോക്കാം എത്ര വികാരങ്ങൾ ആണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് സമ്പൂർണ്ണമായ വികാരങ്ങളുടെ ഒരു പട്ടിക നൽകാൻ കഴിഞ്ഞേക്കാം പക്ഷേ മനശാസ്ത്രജ്ഞൻമാർക്ക് അടിസ്ഥാനപരമായി എത്ര എത്ര വികാരങ്ങളാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് ഇതുവരെയും കൃത്യമായ ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല വ്യക്തമായ ലക്ഷണങ്ങളോടുകൂടിയവയും തിരിച്ചറിയാൻ സാധിക്കുന്നവയും മറ്റൊരു വികാരവുമായി ആയി ഉൾചേരാതെ ഉള്ള വ്യതിരിക്തമായ വികാരങ്ങളാണ് പൊതുവേ അടിസ്ഥാന വികാരങ്ങൾ എന്ന് നിർവചിക്കുന്നത് ഉദാഹരണമായി സന്തോഷം സങ്കടം എന്നീ വികാരങ്ങൾ എടുത്താൽ അവ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഒരിക്കലും സന്തോഷവും സങ്കടവും സംയോജിച്ച് ഉള്ള ഒരു വികാരപ്രകടനം സാധ്യമല്ല മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളും ദർശനങ്ങളും നല്കിയിട്ടുള്ള അടിസ്ഥാന വികാരങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിനുമുമ്പ് പ്ലച്ചിക്ൻറെ വിശദീകരണങ്ങളിലൂടെ കണ്ണോടിക്കാം റോബർട്ട് പ്ലച്ചിക്കിന്റെ അഭിപ്രായത്തിൽ വികാരങ്ങളെ എട്ട് അടിസ്ഥാന വികാരങ്ങളായി തിരിക്കാം അടിസ്ഥാന വികാരങ്ങൾ മറ്റു വികാരങ്ങളുമായുള്ള അവയുടെ സംയോജനം എന്നിവയെ സംബന്ധിച്ചും അദ്ദേഹം വിശദീകരിച്ചു വികാരങ്ങളുടെ സംയോജനത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻറെ വിശദീകരണങ്ങളാണ് ഏറ്റവും സ്വീകാര്യമായത് സന്തോഷം വിശ്വാസം ഭയം ആശ്ചര്യം സങ്കടം വെറുപ്പ് കോപം പ്രതീക്ഷ എന്നിവയാണ് പ്ലച്ചിക് വിശദീകരിച്ച എട്ട് അടിസ്ഥാന വികാരങ്ങൾ പ്രാഥമികമായ ഈ വികാരങ്ങളെല്ലാം വ്യത്യസ്ത തലങ്ങൾ ഉള്ളവയാണ് പോസിറ്റീവ് വികാരങ്ങൾ ആയാലും നെഗറ്റീവ് വികാരങ്ങൾ ആയാലും തീവ്രത ഉയർച്ച താഴ്ച്ച ഇടത്തരം സമാനം എന്നീ ഭേദങ്ങൾ ഉണ്ടാകും ഈ എട്ട് വികാരങ്ങൾ സംയോജിപ്പിച്ച് ചിന്തിക്കുമ്പോൾ അവയുടെ മൂന്ന് വിധത്തിലുള്ള സംയോജനങ്ങൾ മൊത്തത്തിലുള്ള ഫലം എന്നിവ വളരെ പ്രധാനമാണെന്ന് പ്ലച്ചിക് പറയുന്നു പ്ലച്ചിക് പ്രാഥമിക വികാരങ്ങളെ ഒരു വൃത്തത്തിൽ ക്രമീകരിച്ച് തീവ്രതയെ അടിസ്ഥാനമാക്കിയും സംയോജനത്തെ അടിസ്ഥാനമാക്കിയും വിശദീകരിക്കുന്നു ഈ ചിത്രത്തിൽ അടിസ്ഥാനവികാരങ്ങളുടെതായ ഒരു വലയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലച്ചിക് അഭിപ്രായപ്പെടുന്നത് വികാരങ്ങളുടെ തീവ്രതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മറ്റൊരു അനുഭവത്തിന് ആയിരിക്കും ജന്മം നൽകുന്നത് ഭയത്തിൻറെ തീവ്രത വർധിക്കുമ്പോൾ ഭീകരമായ ഒരു അവസ്ഥയാണ് അത് സൃഷ്ടിക്കുന്നത് പക്ഷേ തീവ്രത കുറയുമ്പോൾ ആകട്ടെ ആശങ്കയായി മാറുന്നു സമാനരീതിയിൽ വിസ്മയം അത്ഭുതമായി മാറുന്നതും സങ്കടം ദുഃഖം എന്നിവ വെറുപ്പും നിരാശയും ആയി മാറുന്നതും കോപം വെറുപ്പിലേക്കും ജാഗ്രതയിലേക്കും വഴി മാറുന്നതും സന്തോഷം താൽപ്പര്യങ്ങളിലേക്കും പ്രശംസയിലേക്കും സ്വീകാര്യതയിലേക്കും വഴി മാറുന്നതും തീവ്രതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് പ്ലച്ചിക്കിന്റെ അഭിപ്രായത്തിൽ ഈ അടിസ്ഥാന വികാരങ്ങൾക്ക് മറ്റൊരു വികാരബോധം കൂടി നൽകാൻ കഴിയും ഈ കൂടിച്ചേരലുകളെ ഡയാഡുകൾ എന്ന് വിളിക്കാം ഉദാഹരണത്തിനു സന്തോഷം പ്രതീക്ഷയുമായി സംയോജിക്കുമ്പോൾ ശുഭാപ്തിവിശ്വാസവും വിശ്വാസവും ഭയവുമായി സംയോജിക്കുമ്പോൾ സമർപ്പണവുമായി മാ റുന്നു അല്പസമയത്തിനുള്ളിൽ നമുക്ക് അതിലേക്ക് വരാം പ്ലച്ചിക് പറയുന്നത് അനുസരിച്ച് സന്തോഷവും വിശ്വാസവും സംയോജിക്കുമ്പോൾ സ്നേഹം വിശ്വാസം ഭയം എന്നിവ സംയോജിക്കുമ്പോൾ സമർപ്പണം ഭയം ആശ്ചര്യം എന്നിവ സംയോജിക്കുമ്പോൾ സംയോജിതമായ മറ്റൊരു വികാരവും ഉണ്ടാകുന്നു ഇവ മൂന്നും പ്രാഥമിക ഡയാഡുകളാണ് കുറ്റബോധം സൃഷ്ടിക്കാൻ സന്തോഷം ഭയം എന്നിവ സംയോജിപ്പിച്ചാൽ മതി വിശ്വാസത്തിന് ആശ്ചര്യവുമായി കൂടിച്ചേർന്ന് ജിജ്ഞാസ ഉളവാക്കാം ഭയം സങ്കടവുമായി സംയോജിച്ച് നിരാശ സൃഷ്ടിക്കുന്നു ഇവ ദ്വിതീയ ഡയാഡുകളാണ് ദ്വിതീയ ഡയാഡുകൾ ചിലപ്പോൾ സന്തോഷവുംഅൽഭുതവും കൂട്ടിച്ചേർത്ത് വിശ്വാസവും സങ്കടവും സഹതാപവും കൂട്ടിച്ചേർത്ത് ഭയവും സൃഷ്ടിക്കാറുണ്ട് ഇവ വളരെ അപൂർവ്വമായേ സംഭവിക്കാറുള്ളൂ വിപരീത വികാരങ്ങൾ സംയോജിക്കുമ്പോൾ അവ ചില വൈരുധ്യങ്ങളിലേക്ക് നയിക്കുന്നു ഇനി നമുക്ക് മറ്റ് പ്രാഥമിക ഡയാഡുകൾ നോക്കാം ആശ്ചര്യവും സങ്കടവും സംയോജിച്ച് നിരാശ സങ്കടം വെറുപ്പ് എന്നിവ സംയോജിച്ച് പശ്ചാത്താപം വെറുപ്പ് കോപം എന്നിവ സംയോജിച്ച് അവഹേളനവും കോപവും പ്രതീക്ഷയും സന്തോഷവും സംയോജിച്ച് ശുഭാപ്തിവിശ്വാസവും ഉണ്ടാകുന്നു മറ്റ് ദ്വിതീയ ഡയാഡുകളിലേക്ക് നോക്കാം ദുഖവും കോപവും കൂടിച്ചേർന്ന് അസൂയ വെറുപ്പ് പ്രതീക്ഷ എന്നിവ കൂടിച്ചേർന്ന് അപകർഷതാബോധം കോപം സന്തോഷം എന്നിവ സംയോജിച്ചു അഭിമാനവും പ്രതീക്ഷയും വിശ്വാസവും കൂടിച്ചേർന്ന് മാരകമായ മറ്റൊരു വികാരവും സൃഷ്ടിക്കപ്പെടുന്നു ത്രിതീയ ഡയാഡുകളെക്കുറിച്ച് നമുക്ക് നോക്കാം ആശ്ചര്യവും കോപവും കൂടിച്ചേർന്ന് പ്രകോപനം സങ്കടം പ്രതീക്ഷ എന്നിവ സംയോജിച്ച് അശുഭാപ്തിവിശ്വാസം വെറുപ്പ് സന്തോഷം എന്നിവ സംയോജിപ്പിച്ച് രോഗാവസ്ഥയിലേക്കും നയിക്കുന്നു കോപവും വിശ്വാസവും കൂടിച്ചേർന്ന് ആധിപത്യവും പ്രതീക്ഷയും ഭയവും സംയോജിച്ച് ഉത്കണ്ഠയും ഉണ്ടാകുന്നു വിപരീത വികാരങ്ങൾ ഒന്നിച്ച് കൂടിച്ചേരുന്നതിന്റെ മറ്റൊരു ഉദാഹരണം ആശ്ചര്യവും പ്രതീക്ഷയുമാണ്ഇത് വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം വ്യത്യസ്ത വൈകാരിക അവസ്ഥകൾ എപ്രകാരമാണ് സംഭവങ്ങളുടെ ഒരു ശൃംഖല നിർമ്മിക്കുന്നത് എന്ന് പ്ലച്ചിക് വളരെ ഭംഗിയായി വിശദീകരിക്കുന്നു ഒരു സംഭവം നമുക്ക് ഉത്തേജനം നൽകുന്നു വൈജ്ഞാനികമായ വിലയിരുത്തപ്പെടുന്നു അതിനുശേഷം വ്യക്തിപരമായ പ്രതികരണങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു അതിൻറെ ഫലമായി നമ്മുടെ പെരുമാറ്റങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ആ പ്രവർത്തനം പൂർണ്ണതയിൽ എത്തുന്നു ഉത്തേജനങ്ങളുടെതായ ഒരു പൂർണ്ണ ശൃംഖല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഉത്തേജനത്തിന് കാരണമായ സംഭവങ്ങൾ വൈജ്ഞാനിക വിലയിരുത്തലുകൾ വ്യക്തിപരമായ പ്രതികരണങ്ങൾ പെരുമാറ്റരീതികൾ ധർമ്മങ്ങൾ എന്നിവയാണ് ഇവിടെ നാം കാണുന്നത് ഇതാണ് വൈജ്ഞാനിക വിലയിരുത്തൽ നിങ്ങൾക്ക് ആത്മനിഷ്ഠമായ പ്രതികരണമുണ്ട് സന്തോഷമുണ്ട് നിങ്ങൾ അത് നിലനിർത്തുകയോ ആവർത്തിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ പെരുമാറ്റ പ്രതികരണമാണ് ഒടുവിൽ നിങ്ങൾ അവൾ ഒരു പ്രവർത്തനത്തിന് പൂർത്തീകരണത്തിന് ആവശ്യമായ ഉറവിടത്തിൽ എത്തിച്ചേരുന്നു നിങ്ങൾ ഒരു ഗ്രൂപ്പിലെ അംഗമാണ് നിങ്ങൾ സ്വയം ഒരു സുഹൃത്താണെന്ന് കരുതുക നിങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളോട് ഇത് ഒരു വിധത്തിൽ ഉള്ള വൈജ്ഞാനിക വിലയിരുത്തലാണ് നിങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളോട് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അതനുസരിച്ച് നിങ്ങളുടെ പെരുമാറുന്നു അതാണ് നിങ്ങളുടെ പെരുമാറ്റ പ്രതികരണം അത് നിർവ്വഹിക്കുന്നത് നിങ്ങളും നിങ്ങളെ പിന്തുണയ്കുന്ന ടീം അംഗങ്ങളുടെയും പരസ്പര പിന്തുണയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഭീഷണി ഉണ്ട് അത് നിങ്ങളിൽ ഉത്തേജകം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപകടകരമായ അവസ്ഥയിലാണെന്ന് നിങ്ങൾ എന്ന് വൈജ്ഞാനികമായി വിലയിരുത്തുന്നു ആത്മനിഷ്ഠമായി നിങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണം ഭയമാണ് രക്ഷപ്പെടൽ എന്നത് നിങ്ങളിൽ ഉണ്ടാകുന്ന പെരുമാറ്റപ്രതികരണമാണ് സുരക്ഷിതമായ അവസരങ്ങൾ നിങ്ങൾ തിരയുന്നു സുരക്ഷയിലേക്ക് നോക്കുന്നു ഇപ്പോൾ നിങ്ങളിൽ ഒരു അപ്രതീക്ഷിതസംഭവമുണ്ടാകുന്നുഅത് എന്താണെന്ന്ചിന്തിക്കുന്നുണ്ടോ ഇതാണ് വൈജ്ഞാനിക വിലയിരുത്തൽ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന ആത്മനിഷ്ഠ പ്രതികരണം നിങ്ങൾഎത്തിച്ചേരുന്ന പെരുമാറ്റ പ്രതികരണം നിങ്ങൾ ഏതു തരത്തിലുള്ള പ്രവർത്തനമാണ് പ്രകടിപ്പിക്കുന്നത് അത് മനസ്സിലാക്കുന്നതിനു സമയം എടുക്കുന്നുണ്ട് വളരെ വിലപിടിപ്പുള്ള എന്തോ ഒന്നിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു നിങ്ങൾക്ക് ത്യജിക്കുന്നതിനുള്ള ഉള്ള ഒരു ബോധം ഉണ്ട് ഇതാണ് നിങ്ങളുടെ വൈജ്ഞാനിക വിലയിരുത്തൽ നിങ്ങളുടെ ആത്മനിഷ്ഠമായ പ്രതികരണത്തിൽ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കരയാൻ ആരംഭിക്കുന്നു അത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന പ്രതികരണമാണ് ഇവിടെ നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത എന്തോ ഒന്ന് നിങ്ങളിലുണ്ട് അതൊരു വിഷമാണെന്ന് നിങ്ങൾക്ക് കരുതുന്നു നിങ്ങളിൽ ഉണ്ടാകുന്ന വെറുപ്പ് നിങ്ങളുടെ ആത്മനിഷ്ഠമായ പ്രതികരണവും നിങ്ങൾ അതിനെ ഛർദ്ദിച്ചു പുറംതള്ളുന്നത് പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന പ്രതികരണവുമാണ് അവൾ നിങ്ങളുടെ ശത്രുവാണെന്ന് ആത്മനിഷ്ഠമായ വിലയിരുത്തലുകളിൽ നിങ്ങൾ എത്തുകയും അത് വൈജ്ഞാനികമായി ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ ദേഷ്യം ഉണ്ടാകുന്നു മാത്രമല്ല അവളെ ആക്രമിക്കുന്നതിനു പ്രേരിപ്പിക്കുന്ന പെരുമാറ്റവും ഉണ്ടാകുന്നു ഇപ്രകാരമാണ് തടസ്സങ്ങളെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രകടമാകുന്നത് നിങ്ങൾ ഈ നിറമുള്ള വസ്തുവിലേക്ക് നോക്കുമ്പോൾ സന്തോഷം വിശ്വാസം ഭയം ആശ്ചര്യം സങ്കടം വെറുപ്പ് കോപം എന്നിവയുടെ ആത്മനിഷ്ഠ പ്രതികരണങ്ങൾ വികാരങ്ങളായി കണക്കാക്കുന്നു ആത്മനിഷ്ഠമായ നിങ്ങളുടെ പ്രതികരണങ്ങളെ വൈജ്ഞാനികമായ വിലയിരുത്തുകയും അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ മേഖല നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താം നിങ്ങൾക്ക് ഭാവിപ്രതീക്ഷകളെ കുറിച്ചുള്ള ഉള്ള ധാരണകൾ ഉണ്ടെന്നിരിക്കട്ടെഎങ്കിൽ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണകൾ ഉണ്ടാവുകയും എന്നും അവ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് അടിസ്ഥാന വികാരങ്ങളുടെ സംയോജനത്തെക്കുറിച്ചുള്ള പ്ലച്ചിക്കിന്റെ സിദ്ധാന്തത്തെക്കുറിച്ചാണ് ഈ വാർത്താ ദൃശ്യം ശ്രദ്ധിക്കുക പിതാവിൻറെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന മകനെയാണ് നാമിവിടെ കാണുന്നത് മകൻറെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ ശ്രദ്ധിക്കുക അവൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക അവ തമ്മിൽ സംയോജിപ്പിച്ച് ചിന്തിക്കുമ്പോൾ പ്ലച്ചിക് രണ്ട് വികാരങ്ങളുടെ സംയോജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകും രണ്ടാമത്തെ ശ്രമം അടിസ്ഥാന വികാരം തിരിച്ചറിയാനുള്ള ഇസാർഡിന്റേതാണ് സ്വതസിദ്ധവും അദ്വിതീയമായ ഒൻപത് വികാരങ്ങളാണ് മനുഷ്യൻറെ പ്രചോദനഘടനയിൽ ഉള്ളത് എന്ന് ആരാണ് പറഞ്ഞത് ഭൌതികവും മുഖഭാവങ്ങളുടെതുമായ പ്രവർത്തനങ്ങളിൽ അവ തികച്ചും വ്യത്യസ്തവും വിവേക പൂർണ്ണവും ആണ് താൽപ്പര്യം ആസ്വാദനങ്ങൾ ആശ്ചര്യം വിഷമം വെറുപ്പ് കോപം ലജ്ജ ഭയം അവഹേളനം എന്നിവയാണ് ഇവ ഒമ്പത് അടിസ്ഥാന വികാരങ്ങൾഎന്നാണ് ഇസാർഡ് സൂചിപ്പിക്കുന്നത് ഇസാർഡ് താൽപ്പര്യം ആസ്വാദനങ്ങൾ ആശ്ചര്യം വിഷമം വെറുപ്പ് കോപം ലജ്ജ ഭയം അവഹേളനം എന്നിവയാണ് ഇവ ഒമ്പത് അടിസ്ഥാന വികാരങ്ങൾ ഇസാർഡ് പറയുന്നതനുസരിച്ച് വികാരം സജീവമാക്കുന്നത് വ്യക്തികളുടെ മൂന്ന് തരം പാരിസ്ഥിതിക ഘടകങ്ങളുമായുള്ള ഇടപെടലും അഞ്ച് ആന്തരിക വ്യക്തിഗത പ്രക്രിയകളുമാണ് നിങ്ങൾക്ക് വ്യക്തിഗത പരിസ്ഥിതി ഇടപെടൽ ഉണ്ടെന്നിരിക്കട്ടെ തുടർന്ന് ലഭിച്ച ധാരണകൾ ആവശ്യപ്പെടുന്ന ധാരണകൾ സ്വയമേവയുള്ള ധാരണ അതിനാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയും ഒന്നാമത്തെ മോഡ്യൂളിൽ നാം ചർച്ച ചെയ്തത് സംവേദനത്തെത്തെക്കുറിച്ചും ഗ്രഹണത്തെക്കുറിച്ചുമാണ് സംവേദനത്തിനും പ്രതികരണത്തിനും ആസ്പദമായ എല്ലാ ഘടകങ്ങളും പ്രകൃതിയിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കിയത് ഇത്തരം പെർസെപ്ഷനുകൾ എങ്ങനെയാണ് നിങ്ങളിൽ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ശാരീരിക മാറ്റങ്ങൾക്ക് എപ്രകാരമാണ് നിങ്ങൾ അർത്ഥം കൊടുക്കുന്നത് അത് വ്യക്തിപരമായ ഒരു പെരുമാറ്റത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങളെ നയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതിൻറെ സമഗ്രതയിൽ അപഗ്രഥിക്കാൻ എങ്ങനെ സാധിക്കും അഞ്ച് ആന്തരിക വൈയക്തിക പ്രക്രിയകളെ കുറിച്ചും ഓർമ്മയും ഭാവനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഉള്ള ഇസാർഡ്ൻറെ ആശയങ്ങളാണ് ഇവിടെ പ്രസക്തമാകുന്നത് പ്രോപ്രിയോസെപ്ഷൻ എൻഡോക്രൈൻ പ്രവർത്തനങ്ങൾ മറ്റ് സ്വയം നിയന്ത്രിതമായ ന്യൂറോമസ്കുലർ സിസ്റ്റങ്ങളുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം പറയുന്നത് ഇവയിലെല്ലാം ഓർമ്മയുടെ വ്യക്തമായ സ്വാധീനവും ഇടപെടലും ഉണ്ടെന്നാണ് നിങ്ങൾ കാര്യങ്ങൾ എങ്ങനെ ഭാവനയിൽ കാണുന്നു നിങ്ങളുടെ മുഖഭാവങ്ങളും മറ്റ് കായിക ചലനങ്ങളുടെയും സംബന്ധിച്ച ധാരണകൾ എൻഡോക്രൈൻ മറ്റ് സ്വയം നിയന്ത്രിത പ്രവർത്തനങ്ങൾ അവയോട് ന്യൂറോ മസ്കുലർ സിസ്റ്റം എങ്ങനെ പ്രതികരിക്കുന്നു ഇവയെല്ലാം ഇത്തരത്തിലുള്ള ഓർമ്മയുടെ ഇടപെടലിനെ സഹായിക്കുന്നവയാണ് ഇത് ചില പ്രചോദനാത്മകമായ അവസ്ഥകൾ സൃഷ്ടിക്കുന്നു നമുക്ക് സ്വതസിദ്ധമായ ആയ ചില വൈകാരിക അവസ്ഥകൾ ഉണ്ടെന്ന് ഇസാർഡ് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകം ആയിട്ടുള്ള വികാരങ്ങൾ പ്രചോദനാത്മകമായ ഘടകങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങൾ മുഖഭാവപ്രകടനങ്ങൾ ഇവയെല്ലാം പരസ്പരബന്ധിതവുമാണ് പ്ലച്ചിക് പറയുന്നത് എട്ട് അടിസ്ഥാന വികാരങ്ങൾ ഉണ്ടെന്നാണ് അടിസ്ഥാന വികാരങ്ങൾ ഒൻപത് എന്നാണ് ആണ് ഇസാർഡ് പറയുന്നത് തുടർന്ന് പോൾ എക്മാന്റെ ആശയങ്ങൾ വരുന്നത് എക്മാൻ പപ്പുവ ന്യൂ ഗ്വിനിയയിലെ ഡാനി ഫോർ ഗോത്രങ്ങളിൽ ക്രോസ് കൾച്ചറൽ റിസേർച്ച് നടത്തി അടിസ്ഥാന വികാരങ്ങൾ സ്വതസിദ്ധമാണ് എന്ന നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത് പോൾ എക്മാൻ പറയുന്നതനുസരിച്ച് നമുക്ക് ആറ് അടിസ്ഥാന വികാരങ്ങൾ ഉണ്ട് സന്തോഷം ദു ഖം കോപം ഭയം വെറുപ്പ് ആശ്ചര്യം എന്നിവ ആണ് ആറ് അടിസ്ഥാന വികാരങ്ങൾ മറ്റുള്ള വികാരങ്ങൾ ഈ വികാരങ്ങളുടെ സംയോജിത രൂപമാണ് അടിസ്ഥാന വികാരങ്ങൾ വ്യത്യസ്തമായ സ്വഭാവസവിശേഷതകൾ പുലർത്തുന്നു സന്തോഷം ദുഖം വെറുപ്പ് ഭയം കോപം ആശ്ചര്യം എന്നീ വികാരങ്ങളുടെ സവിശേഷതകൾ മറ്റുള്ളവികാരങ്ങളുമായി കൂടിച്ചേരുന്നു മുൻഅനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഓർമ്മകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ശാരീരികമായ പ്രത്യേകതകളും വികാരപ്രകടനങ്ങളും ആണ് ഇവയ്ക്ക് അടിസ്ഥാനം ആയിട്ടുള്ളത് എന്നാൽ ആത്മനിഷ്ഠമായ അനുഭവങ്ങളുടെ കാര്യത്തിൽ ചില വ്യത്യസ്തതകൾ ഉണ്ട്